ഹലോ ഹായ് സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും മെച്ചപ്പെടുത്തുക എന്ന എൻറെ ഈ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ അഞ്ചാം ആഴ്ച്ചയിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ രണ്ടാം യൂണിറ്റിലാണ് ഇത് ഇംഗ്ലീഷ് നൈപുണ്യത്തെക്കുറിച്ചുള്ള രണ്ടാം മോഡ്യൂളും പൊതുവെ ഉണ്ടാകാവുന്ന തെറ്റുകളെ സംബന്ധിച്ച രണ്ടാം പാഠവുമാണ് ചിലർ എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് എന്ന വാക്കിൽ w ചേർക്കുന്നത് എന്ന് എനിക്ക് അവരോടു പറയാൻ ഉള്ളത് നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷിൽ പ്രവീണ്യം നേടി വിജയികളാകണം എന്നതാണ് എന്റെ ആഗ്രഹം അപ്പോൾ ഇതൊരു തരം കളിയാണ് ഈ കളിയിൽ നിങ്ങൾക്ക് അതിന്റെ നിയമങ്ങളെക്കുറിച്ച് അറിവുണ്ടാരിക്കണം കാരണം നിയമങ്ങൾ അറിഞ്ഞാലേ നിയമങ്ങൾ തെറ്റിക്കാൻ സാധിക്കു പക്ഷേ നിയമങ്ങളെക്കുറിച്ച് അറിവില്ലാതെയാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് ഈ കളി ജയിക്കണം കളിയിലേക്ക് വരാം ഈ കഴിഞ്ഞ ആഴ്ച്ച സോഫ്റ്റ്റ് സ്കിൽസും വ്യതിത്വവും വികസിപ്പിക്കുന്നതിൻറെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു പക്ഷേ ഈ ആഴ്ച്ചയിൽ ഇംഗ്ലീഷ് നൈപുണ്യത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാം കാരണം ആളുകൾ പലപ്പോഴും കരുതുന്നത് ഇത് സോഫ്റ്റ് സ്കിൽസ് വികസിപ്പിക്കുക എന്നതിനോട് കൂടുതൽ ചേർന്നു നിൽക്കുന്നു എന്നാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസിൽ പ്രാവിണ്യം ഉണ്ടെന്നു പറയുകയും അതേ സമയം നിങ്ങൾ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസിൽ പ്രാവിണ്യം ഉണ്ടെന്നത് ആളുകൾ ഒരിക്കലും അങ്കികരിക്കില്ല അതുകൊണ്ട് ഒരുപടി കൂടി കടന്ന് നമ്മൾ സ്കിൽസ് മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കെന്ദ്രീകരിക്കുകയാണ് കഴിഞ്ഞ ഭാഗത്ത് നിങ്ങളെ അൽപം കുഴപ്പിക്കുന്ന ഇരുപത് വാക്യങ്ങൾ തന്ന് ഉത്തരം കണ്ടെത്താൻ ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മൾ ആ ചെയ്ത കാര്യങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം കഴിഞ്ഞ ഭാഗത്ത് ആഗോള തലത്തിൽ ഇംഗ്ലീഷ് നൈപുണ്യം വളർത്തിയെടുക്കെണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചു ഞാൻ പറയുകയുണ്ടായി ഇംഗ്ലീഷ് ഭാഷ ലോകത്തിന്റെ പൊതുഭാഷയായാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നു മാത്രമല്ല അന്തർദേശീയ തലത്തിൽ ആശയവിനിമയത്തിനും ഇതേ മാധ്യമം തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കു ഒരു വിനോദസഞ്ചാരിയായിട്ടോ വിദ്യാർധിയിട്ടോ അല്ലെങ്കിൽ ഒരു വ്യവസായി ആയിട്ടോ ഒക്കെ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം വർദ്ധിപ്പിച്ചേ മതിയാകൂ ഇതിനു പുറമേ ധാരാളം പുസ്തകങ്ങളും ചലച്ചിത്രങ്ങളും മറ്റ് വിജ്ഞാനം പ്രദാനം ചെയ്യുന്ന മാധ്യമങ്ങളും ഒക്കെ നിർമ്മിക്കപ്പെടുന്നത് ഇംഗ്ലീഷിൽ ആണ് അതു കൊണ്ടുതന്നെ ആളുകൾ സോഫ്റ്റ് സ്കിൽസിനും ഇംഗ്ലീഷ് നൈപുണ്യത്തിനും തമ്മിൽ യാതൊരു വ്യത്യാസവും കാണുന്നില്ല എന്നിരുന്നലും ഈ പൊതു കാഴ്ചപ്പാട് അത്ര ശരിയല്ല ഇംഗ്ലീഷ് ഭാഷാ പ്രാവിണ്യവും പൊതുവെ ഉണ്ടാകുന്ന തെറ്റുകളെ ഒഴിവാക്കുന്നതും ഒക്കെ ഒരു പരിധിവരെ ആവശ്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്നു വച്ചാൽ ഏറ്റം കുറഞ്ഞത് വാക്കുകൾ തമ്മിൽ തെറ്റിപ്പോകാതെയും അനുദിനമുള്ള ആശയവിനിമയത്തിൽ പൊതുവെ ഉണ്ടാകുന്ന തെറ്റുകൾ ഒഴിവാക്കിയും ആളുകൾക്ക് മനസിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ലളിതമായ ഇംഗ്ലീഷിൽ സംസാരിക്കുക ഒരു തുടക്കമെന്ന നിലയിലാണ് കഴിഞ്ഞ ഭാഗത്ത് പൊതുവെ തെറ്റായി ഉപയോഗിക്കപ്പെടുന്ന ഇരുപത് വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഈ അധ്യായത്തിൽ അവയുടെ ശരിയായ ഉപയോഗത്തെക്കുറിച്ചു പഠിക്കും ഒപ്പം നിങ്ങൾക്ക് ഇരുപത് വാക്യങ്ങൾ കൂടി തന്നിട്ട് ആളുകൾ അനുദിനആശയവിനിമയത്തിൽ തെറ്റ് വരുത്താൻ സാധ്യതയുള്ള വാക്കുകളും പദ പ്രയോഗങ്ങളും കണ്ടെത്താൻ ആവശ്യപ്പടുകയും ചെയ്യും ഇപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ പരിശോധിക്കാം കഴിഞ്ഞ തവണ നിങ്ങൾ ഒരു നോട്ട്ബുക്കിലോ മറ്റോ ഉത്തരങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അതെടുക്കുക ശരിയുത്തരങ്ങൾക്ക് നേരെ ടിക്ക് ഇട്ട് ഒരു മാർക്കുവീതം നൽകുക എന്നിട്ട് അവസാനം ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം വിലയിരുത്താം ആദ്യത്തേത് ശരിയായ ഉത്തരം The English introduced cricket in India 'The English' എന്നത് ഇവിടെ ആളുകളെ സൂചിപ്പിക്കുന്നു നിങ്ങൾ English എന്ന വാക്കിനു മുൻപ് the എന്ന ആർട്ടിക്കിൽ ചേർക്കുമ്പോൾ അത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരെ സൂചിപ്പിക്കുന്നു നിങ്ങൾ ഏതു ഭാഷയ്ക്ക് മുന്പ് the ഉപയോഗിച്ചാലും ഇതു തന്നെയാണ് സംഭവിക്കുന്നത് ഉദാഹരണത്തിന് ഫ്രഞ്ച് നിങ്ങൾ the French എന്നു പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഫ്രാൻസ്കാരെ ആണ് അതുപോലെ the German എന്നത് ജർമൻകാരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു രണ്ടാമത്തേതിന്റെ ഉത്തരം തീർച്ചയായും English എന്നതാണ് അത് വാക്യത്തിൽ ഉപയോഗിക്കുമ്പോൾ I don't enjoy watching English movies എന്നു വരും ഇവിടെ English എന്നത് സൂചിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയെയാണ് നിങ്ങക്ക് ഇതിൻറെ വ്യത്യാസം മനസിലായി എന്നാണ് ഞാൻ കരുതുന്നത് the English എന്നത് ആളുകളെ സൂചിപ്പിക്കുന്നു ആർട്ടിക്കിൾ ഇല്ലാതെ English എന്നു മാത്രം എഴുതുമ്പോൾ അത് ഭാഷയെ സൂചിപ്പിക്കുന്നു അടുത്ത ജോഡി വാക്കുകൾ ഞാൻ നേരത്തെ ഇവ ഉച്ചരിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ അത് ഉച്ചരിക്കാം resume and résumé ഞാൻ ഇത് ഉച്ചരിച്ചപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം ചെറുതായി നിങ്ങൾക്കു മനസിലായിക്കാണും ആദ്യത്തേ ഉത്തരം The game will resume after the lunch break ഇവിടെ resume എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പുനരാരംഭിക്കുക ഒരു ഇടവേളക്കു ശേഷം വീണ്ടും തുടങ്ങുക സാധാരണയുള്ള ഒരു ഇടവേള നൽകിയതിനു ശേഷം വീണ്ടും ആരംഭിക്കുക എന്നൊക്കെയാണ് പക്ഷേ résumé എന്ന് പറയുന്നത് ഒരാളുടെ നേട്ടങ്ങളുടെ ഒരു സംഗ്രഹം ആണ് അയാളുടെ കഴിവുകളുടെയും അനുഭവ പരിചയത്തിന്റെയും ഒക്കെ സംഗ്രഹം അതായത് സാധാരണ സി യുടെയും ബയോഡെറ്റയുടെയും ചെറിയ പതിപ്പ് അത് നമ്മൾ കണ്ടതുപോലെയുള്ള വാക്യങ്ങളിൽ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ Shruti's résumé is so impressive that she will get an interview call from any company അതായത് resume എന്നത് ഒരു ഇടവേളക്കു ശേഷം തുടങ്ങുന്നു എന്ൻ അർത്ഥമാക്കുമ്പോൾ résumé എന്നത് ബയോഡെറ്റയുടെ ചെറിയ പതിപ്പാണ് അഞ്ചാമത്തെത്തിന്റെയും ആറാമത്തെത്തിന്റെയും ജോഡി alone ഉം lonelyയുമാണ് I live alone in the bungalow എന്നതാണ് ശരിയായ ഉത്തരം Alone എന്നാൽ മറ്റാരുടെയും കൂടെ അല്ലാതിരിക്കുക സ്വതന്ത്രമായിരിക്കുക എന്നൊക്കെയാണ് അടുത്തതിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് lonely എന്നാണ് ഇവിടെ Hemingway's The Old Man and the Sea depicts the life of a lonely fisherman കൂട്ടില്ലാതിരിക്കുക എന്നതാണ് Lonely എന്നതിന്റെ അർഥം അതായത് അദ്ദേഹത്തിന്റെ മീൻപിടുത്തക്കാരായ മറ്റു സുഹൃത്തുക്കളുടെ സഹായം ഇല്ലാതിരിക്കുക അതുകൊണ്ട് അയാൾ ഒറ്റക്ക് ആഴക്കടലിലേക്ക് പോകുന്നു അവിടെ അയാൾക്ക്പലപ്പോഴും ഏകാന്തത അനുഭവപ്പെടുന്നു അതായത് ഇതിൽ ഒരു ദുഖത്തിന്റെ അനുഭവം അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏകാന്തതയുടെ അനുഭവമുണ്ട് അതാണ് ഇവിടുത്തെ വ്യത്യാസം Alone സൂചിപ്പിക്കുന്നത് ഒരാൾ സ്വതന്ത്രമായി ഒറ്റക്ക് മറ്റാരുമില്ലാതെ ജീവിക്കുന്നതിനെയാണ് എന്നാൽ lonely എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടുന്നതിന്റെ ഒരു അനുഭവമുണ്ട് ഈ ഉപേക്ഷിക്കൽ ഒരുപക്ഷെ മറ്റുള്ളവർ മനപ്പൂർവ്വം നടത്തിയതാവാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുത്തതുമാകാം നിങ്ങൾ മറ്റാരും ഇല്ലാതെ ഒറ്റക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഇവിടെ മിക്കപ്പോഴും ഒരു ദുഃഖത്തിന്റെ അനുഭവമുണ്ട് അടുത്ത ജോഡി വാക്കുകൾ childish childlike എന്നിവയാണ് ശരിയായ ഉത്തരം ഇതാണ് His childish behavior is very irritating ഇവിടെ Childish എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പക്വത ഇല്ലാത്തതിനെയാണ് അടുത്ത വാക്യം നോക്കുക Her childlike beauty appeals to everyone Childlike എന്നാൽ ചെറുപ്പവും നിഷ്കളങ്കതയും ഒക്കെ ഉള്ള ഒരു കുട്ടിയെപ്പോലെ എന്നാണ് സന്ദർഭം മാറിവരുന്നതിനനുസരിച്ചു ഇവയുടെ ഉപയോഗം തമ്മിൽ തെറ്റിപ്പോകരുത് ശരി ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം principal ഉം principle ഉം ഇവിടുത്തെ വാക്യം My principal got angry when I went late to the school for the third consecutive day എന്നതാണ് ഇവിടെ Principal എന്നാൽ സ്കൂളിലെ പ്രധാനഅദ്ധ്യാപകയാണ് മിക്കപ്പോഴും കത്തെഴുതുമ്പോളാണ് ഈ വാക്കുകൾ തമ്മിൽ തെറ്റിപ്പോകുന്നത് ഒന്നിനു പകരം അടുത്തത് എഴുതാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം അതു കൊണ്ടുതന്നെ പലരും ഇത് ഉപയോഗിക്കാറില്ല പക്ഷേ എഴുതുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട് പത്താമത്തെതിന്റെ ശരിയുത്തരം He is a man who lives without any principle ഇവിടെ principle എന്നത് സൂചിപ്പിക്കുന്നത് ഒരു നിയമത്തെ ഒരു പ്രമാണത്തെ അല്ലെങ്കിൽ നിലവാരത്തെ ഒക്കെയാണ് പ്രത്യേകിച്ചും നല്ല സ്വഭാവം ഇവയുടെ വ്യത്യാസം നോക്കിയാൽ ഒന്ന് ഒരു വ്യക്തിയെ തലവനെ ഒക്കെ സൂചിപ്പിക്കുമ്പോൾ അടുത്ത വാക്ക് ഒരു നല്ല സ്വഭാവത്തിന്റെ നിലവാരത്തെ സൂചിപ്പിക്കുന്നു അടുത്ത ജോഡി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഞാൻ ഉച്ചരിക്കില്ല കാരണം അതിന്റെ ഉത്തരത്തെ അത് സൂചിപ്പിക്കും സ്യൂട്ട് സ്വീറ്റ് ഈ രണ്ട് ജോഡി വാക്കുകളിൽ രണ്ടാമത്തെത്തിനു ഒരു e കൂടുതലുണ്ട് എന്നതൊഴിച്ചാൽ പദവിന്യാസം ഒരുപോലെയാണ് ശരിയായ ഉത്തരങ്ങൾ He wore a smart suit ഇവിടെ സ്യൂട്ട് അല്ലെങ്കിൽ പാന്റ്സ് എന്നത് ഒരു വ്യക്തി ധരിക്കുന്ന വസ്ത്രമാണ് അതായത് ഇത് വസ്ത്രത്തെ സൂചിപ്പിക്കുന്നു അടുത്തത് They booked the family suite ഇത് ശരിക്കും ഒരു ഹോട്ടലിലെ സ്വീറ്റ് പോലെ തോന്നിക്കുന്നു ഇവിടെ സ്വീറ്റ് എന്നാൽ ഒരു കെട്ടിടത്തിലെ മുറികൾ അല്ലെങ്കിൽ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള മുറികൾ ഉൾക്കൊള്ളുന്ന ഒരു അപാർട്ട്മെന്റ് എന്നൊക്കെയാണ് ഫാമിലി സ്വീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻറെ അർഥം നിങ്ങൾക്ക് അവിടെ ഒരു ഫാമിലി അപാർട്ട്മെന്റ് പോലെ അനുഭവപ്പെടും അതായത് ഒരു സിംഗിൾ ബെഡ്റൂമിന്റെയോ അല്ലെങ്കിൽ ഒരു ഡബിൾ ബെഡ്റൂമിന്റെയോ പ്രതീതി അല്ല അത് നിങ്ങൾക്ക് തരുന്നത് മറിച്ച് നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയ അടുക്കള ഉണ്ടാകും ഒരു പ്രധാന കിടപ്പുമുറി രണ്ട് ചെറിയ കിടപ്പുമുറികൾ ഒരുമിച്ചു വരാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മുമ്പിൽ ഒരു സ്ഥലം അതായത് മുൻവശത്ത് ഒരു തരം ഡ്രോയിംഗ് റൂം പിന്നെ ഒരു ലിവിംഗ് റൂം ഇവയൊക്കെ ചേർന്നതായിരിക്കും ഇത് ഒരു ഹോട്ടലിൽ ആണെങ്കിലും ഇവയെല്ലാം ഒരുമിച്ചു ചേർന്ന ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് അതായത് ഇവിടെ ഒരു കുടുംബം ഒന്ന് ചേർന്ന് താമസിക്കുന്നതിന്റെ അനുഭവം തരുന്നു അടുത്ത രണ്ടു വാക്കുകൾ economic economical എന്നിവയാണ് ഇതിൽ നിന്നാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് പതിമൂന്നമാത്തെതിന്റെ ശരിയുത്തരം The economic crisis of the 1920's is well known എന്നാണ് Economicൻറെ അർത്ഥം സാമ്പത്തികം പണം സമ്പത്ത് സമ്പത്ത് സമ്പാദിക്കൂക എന്നിവയുമായി ബന്ധപ്പെട്ടത് എന്നൊക്കെയാണ് ഇനി അടുത്തത് economical എന്നത് ഈ വാക്യത്തിൽ നാം കാണുന്നതു പോലെ സാമ്പത്തികം പണം എന്നിവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ അർഥം ഉള്ളതാണ് ഇതിനെ ശരിയായ ഉപയോഗം She was economical in arranging for the wedding party of her daughter എന്നാണ് ഇവിടെ economical എന്നാൽ മിതമായി വിനിയോഗിക്കുക ചെലവ് ചുരുക്കുക പണം ചിലവഴിക്കുന്നതിൽ ധൂർത്ത് കാട്ടാതിരിക്കുക എന്നൊക്കെയാണ് അതോടൊപ്പം ഒന്നും പാഴാക്കി കളയാതിരിക്കുക വിഭവങ്ങൾ ഏറ്റം ഫലപ്രദമായി അല്ലെങ്കിൽ കാര്യക്ഷമമായി ഉപയോഗിക്കുക എന്നൊക്കെയും അർത്ഥമുണ്ട് പതിനഞ്ചും പതിനാറും പേർസണൽ പെഴ്സോനാൽ എന്നിവയിൽ നിന്ന് തിരഞ്ഞെടുക്കനാണ് ആദ്യത്തെ personal എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഉത്തരം He has written about his personal experiences in the book എന്നാണ് ഈ വാക്കിൻറെ അവസാനം ചെർത്തിരിക്കുന്ന nal എന്ന ഭാഗം ഒരാളുടെ വ്യക്തിപരവും സ്വകാര്യവുമായ ജീവിതത്തോട് ബന്ധപ്പെട്ടതാണ് എനിക്ക് വ്യക്തിപരമായി നിന്നെ ഇഷ്ടമാണ് പക്ഷേ ഓഫീസിൽ എന്റെ ഈർഷ്യ ഞാൻ നിന്നോട് പ്രകടിപ്പിക്കും എന്നുവച്ചാൽ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ് പക്ഷേ നിന്റെ മേലധികാരി എന്ന നിലയിൽ ഞാൻ മറ്റൊരു രീതിയിലായിരിക്കും നിന്നോട് പെരുമാറുക അതുപോലെ The army personnel എന്നതിൻറെ അവസാനഭാഗത്ത് നോക്കുക അവിടെ nnel എന്നാണുള്ളത് അതാണ് ഇവിടുത്തെ വ്യത്യാസം ഞങ്ങൾ വളരെ കാര്യക്ഷമത ഉള്ളവരും ധൈര്യശാലികളും ആയ ആളുകളാണ് ഇവിടെ ആളുകൾ എന്നത് ജീവനക്കാർ ആകാം അല്ലെങ്കിൽ അധ്വാനവർഗത്തെ സൂചിപ്പിക്കാനും ആകാം സാധാരണയായി കൽപനകൾ അനുസരിക്കാൻ സമ്മതമുള്ള ഒരുകൂട്ടം ആളുകളെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത് 17 18 ഇവയിൽ ശരിയായതുള്ളത് 17 ലാണ് The alternate pattern of light and dark colours looked beautiful on the bed sheet എന്നതിൽ alternate അർത്ഥമാക്കുന്നത് ഒന്നിനു ശേഷം മറ്റൊന്ന് എന്ന രീതിയിൽ സംഭവിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഒരുപക്ഷേ ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ I will come for the job on alternate days ഇതിന്റെ അർഥം ഞാൻ ഒരു ദിവസം വരും അടുത്ത ദിവസം അവധി എടുക്കും വീണ്ടും അതിനടുത്ത ദിവസം വരും എന്നാണ് അതായത് ഒന്നിനു പിറകെ മറ്റൊന്ന് എന്ന ക്രമത്തിൽ സാധാരണ ഇത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ രണ്ടോ അതിലധികമോ വസ്തുക്കളിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പിനെനെയാണ് alternative എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് The underpass is a good alternative to the main road in case of heavy traffic ഇവിടെ alternative എന്നത് രണ്ടെണ്ണത്തിൽ ഒന്ന് അതായത് പ്രധാന വഴിക്കു പകരം ഭൂഗർഭ വഴി തിരഞ്ഞെടുത്തു എന്നതാണ് പത്തൊൻപത് There is a beautiful lake in this village ഇവിടെ there their എന്നിവ തമ്മിൽ സാധാരണയായി തെറ്റിപ്പോകാവുന്നതാണ് പ്രത്യേകിച്ചും എഴുതുമ്പോൾ കാരണം ഉച്ചരിക്കുമ്പോൾ ഇതു രണ്ടും ഒരു പോലെയാണ് പക്ഷേ എഴുതുമ്പോൾ ഇവ തമ്മിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് There is a beautiful lake in the village എന്ന ഉദാഹരണത്തിൽ നല്കിയിരിക്കുന്ന There എന്ന വാക്ക് ആ സ്ഥലത്തുള്ള എന്തിനെയെങ്കിലും അല്ലെഗിൽ ആ കൃത്യം സ്ഥലത്തെത്തന്നെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ അതിൽ ഒരു eir വരുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ഉദാഹരണത്തിൽ കണ്ടതുപോലെ Due to the festival the workers got their pay one week in advance ഇവിടുത്തെ their ഒരു സർവ്വനാമത്തെ അതായത് ആളുകളെ സൂചിപ്പിക്കുന്നു അത് ആളുകളുടെ എന്നാകാം അല്ലെങ്കിൽ ആളുകളെത്തന്നെ ആകാം നിങ്ങൾ ഇപ്പോൾ ശരിയുത്തരം ടിക്ക് ചെയ്ത് ഒരു മാർക്കും തെറ്റായ ഉത്തരം വെട്ടി 0 മാർക്ക്കും കൊടുത്തിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ് ഇപ്പോൾ ഒരു അല്പ സമയം എടുത്ത് ആ മാർക്കുകൾ എല്ലാം ഒന്ന് കൂട്ടുക എന്നിട്ട് ആകെ എത്ര മാർക്ക് കിട്ടി എന്ന് പരിശോധിക്കുക നിങ്ങൾക്ക് ഇരുപതിൽ ഇരുപതും കിട്ടി എങ്കിൽ ഇംഗ്ലീഷ് നൈപുണ്യത്തിൽ ഏറ്റം ഉയർന്ന നിലവാരം പുലർത്തുന്നു 18ഓ 19 ഓ ആണെങ്കിൽ അല്പം ഒന്ന് മിനുക്കിയെടുക്കേണ്ട ആവശ്യമേയുള്ളൂ 15 നും 17നും ഇടക്കാണ് മാർക്കെങ്ങിൽ വളരെ നല്ലത് ഇനിയും 12നും 14നും ഇടക്കാനെങ്കിൽ നല്ലത് 10 അല്ലെങ്കിൽ 11 എന്ന നിലയിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നേയുള്ളു അതായത് ഇനിയും ഒത്തിരി മെച്ചപ്പെടുതാനുണ്ട് എന്നർത്ഥം 8 മുതൽ 9 വരെയുള്ളത് ശരാശരി നിലവാമേ പുലർത്തുന്നുള്ളൂ അതായത് ഇനിയും ഒത്തിരി ചെയ്യാനുണ്ട് 6 മുതൽ 8 വരെയുള്ളത് ശരാശരിയിലും താഴ്ന്ന നിലവാരമാണ് മെച്ചപ്പെടാൻ നിങ്ങൾ നന്നായി അധ്വാനിക്കണം 4 മുതൽ 7 വരെ മോശം നിലവാരമാണ് വളരെ അധ്വാനിക്കണം 0 മുതൽ 3 വരെയാണെങ്കിൽ അത് വളരെ മോശം നിലാരമാണ് പക്ഷേ മിക്കവാറും എല്ലാവരും 12നും 14നും ഇടക്ക് നിൽക്കുന്നു എന്നാണെന്റെ ഊഹം ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ വിലയിരുത്തുന്നത് നിങ്ങൾ ഏതു നിലവാരത്തിലാണ് നിൽക്കുന്നതെന്ന് ഇതിൽ നിന്ന് മനസിലാകും ഇനി ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ ശരാശരി അല്ലെങ്കിൽ ശരാശരിയിലും താഴ്ന്ന നിലവാരമേ പുലർത്തുന്നുള്ളു എങ്കിൽ ഞാൻ നിങ്ങൾക്കു നിർദ്ദേശിച്ച പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ പരിശീലിക്കുക ഒപ്പം അത് നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ എങ്ങനെ ശരിയായി ഉപയോഗിക്കാമെന്നും പരിശീലിക്കുക പരിശീലനം നിങ്ങളെ പൂർണത ഉള്ളവരാക്കും മറ്റുള്ളവരെ കേൾക്കുക അവരെ നിരീക്ഷിക്കുക അവർ ശരിയായിട്ടാണോ സംസാരിക്കുന്നത് എന്ന് പരിശോധിക്കുക നല്ലൊരു നിഘണ്ടു ഉപയോഗിക്കുക ഇതെല്ലാം നിലവാരമുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനം സമ്പാദിക്കുന്നതിനു നിങ്ങളെ സഹായിക്കും ഇനി അടുത്ത വാക്യങ്ങളിലെക്ക് പോകാം ഇവ ഒരൽപ്പം കൂടി വെല്ലുവിളി ഉയർത്തുന്നതാണ് ഇത്തവണ ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻസ് തരുന്നില്ല മറിച്ച് ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം പരിശോധിക്കാൻ പോകുകയാണ് അത് എങ്ങനെയെന്നാൽ നിങ്ങൾക്ക് തരുന്ന വാക്യത്തിൽ അടിവര ഇട്ടിരിക്കുന്ന വാക്കിന്റെ ശരിയായ രൂപം നൽകാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടും ഇവിടെ 20 വാക്യങ്ങളുണ്ട് അവയിൽ അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക ഇവിടെ തിരഞ്ഞെടുക്കാൻ ഒന്നുമില്ല അടുത്ത വീഡിയോയിൽ ഏതാണ് ശരിയായ വാക്ക് അല്ലെങ്കിൽ വാക്കിന്റെ ശരിയായ രൂപം എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അതുപോലെ അവിടെ നിങ്ങളുടെ ഉത്തരങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് മാർക്കും നൽകും ഈ 20 വാക്യങ്ങൾ പരിശോധിക്കുക എന്നിട്ട് ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് ഒരു നിഘണ്ടു ഉപയോഗിച്ചോ ഗൂഗിളിൽ തിരഞ്ഞോ ശരിയുത്തരം കണ്ടെത്തി ഓർത്തുവൈക്കുക ഇന്ന് എല്ലാ ഉത്തരങ്ങളും ഇന്റർനെറ്റിൽ ലഭ്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരങ്ങൾ കണ്ടെത്താം പക്ഷെ അവ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചു വയ്ക്കുക ഓർമയിൽ സൂക്ഷിക്കുക എന്നിട്ട് അത് ഓർത്തെടുത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ സംഭവിക്കുന്നത് നിങ്ങൾ എല്ലാ ഉത്തരങ്ങളും ശരിയായി കണ്ടുപിടിക്കും 20 മാർക്കും ലഭിക്കും അതായത് നിങ്ങൾക്ക് 20ൽ 20ഉം കിട്ടും പക്ഷെ ഉപയോഗത്തിൽ 5 ഓ 8ഓ മറ്റോ കിട്ടിയാലായി അതുകൊണ്ട് ഇവയുടെ ഉപയോഗത്തിലും 20ൽ 20ഉം വേണം അപ്പോൾ നമുക്കു തുടങ്ങാം നിങ്ങൾ ഇത് നന്നായി ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അടിവരയിട്ടിരിക്കുന്ന വാക്കുകളുടെ ശരിയായ രൂപം നൽകുക 1 Meet Madhav He's my older brother ഇവിടെ അടിവരയിട്ടിരിക്കുന്ന വാക്ക് older എന്നതാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക തീർച്ചയായും ഞാൻ തെറ്റായ രൂപമാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇതിൻറെ ശരിയായ രൂപം പറഞ്ഞു തരണം അടുത്തത് 2 My sister in laws are coming for dinner tonight ഇതുപോലുള്ള ചില പ്രയോഗങ്ങൾ വളരെ സാധാരണം എന്ന് തോന്നും ശരിയാന്നെന്നു നമ്മൾ വിചാരിക്കും പക്ഷെ അവ അങ്കികരിക്കാൻ പറ്റുന്നവയാരിക്കില്ല തെറ്റായിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ നിർബന്ധംമയും തിരുത്തേണ്ട തെറ്റുകൾ ഇനി 20 അല്ലെങ്കിൽ 30 വർഷമായി നിങ്ങൾ ഇവ ഉപയോഗിച്ചുകൊണ്ടിരുന്നവയാണെങ്കിൽപോലും അവ തിരുത്താനുള്ള സമയം അതിക്രമിച്ചു അതുകൊണ്ട് അവ തെറ്റാണ് നിങ്ങൾ തെറ്റ് ഏതാണെന്നു മനസിലാക്കി ശരിയായത് കണ്ടുപിടിച്ച് അവ ഓർത്തുവൈക്കണം മൂന്നാമത്തേത് Anjali's niece has grown up അടിവരയിട്ട പദപ്രയോഗം grown up എന്നാണ് എന്താണ് ഇതിലെ തെറ്റ് എന്നു കണ്ടുപിടിക്കുക 4 I just got to know that Binayak has married with Supriya ഇത് നമ്മൾ വളരെ സാധാരണയായി ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് ഇതിൽ തെറ്റ് എന്താണെന്ന് സംശയിച്ചേക്കാം അതുകൊണ്ട് അടിവരയിട്ട പദപ്രയോഗം ശ്രദ്ധിക്കുക എന്നിട്ട് അത് ശരിയാക്കുക 5 They've got a beautiful home in the hills ഇവിടെ അടിയരയിട്ട home എന്ന വാക്ക് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ് കാരണം ഇത് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നതല്ലേ 6 My brother lives in abroad lives in എന്നത് വളരെ സാധാരണമായ ഒരു പ്രയോഗമാണ് ഇതിൽ എന്താണ് തെറ്റ് 7 I've been brought up in a joint family ഇത് വളരെ ആകർഷകമായ ഒന്നാണ് കാരണം നിങ്ങളിൽ പലരും joint family എന്നതിന് പകരം മറ്റൊരു വാക്കിനെക്കുറിച്ച് ചിന്തിക്കുന്നു പോലും ഉണ്ടാകില്ല ദയവായി ഒരു നിഘണ്ടുവിൽ നോക്കുക ഗൂഗിൾ ചെയ്യുക എന്നിട്ട് പരിശോധിക്കുക I live in a joint family എന്നു പറയുമ്പോൾ നിങ്ങൾ ശരി തന്നെയാണോ ചെയ്യുന്നത് എന്ന് 8 Dad and I have a lot of things in common between us ഇത് നമ്മൾ സാധാരണ she and me we have lot of things in common between us പറയുന്നതുപോലെയുള്ള ഒന്നാണ് in common between us എന്നതിൽ എന്താണ് തെറ്റായിടുള്ളത് എങ്ങനെ നമുക്കിത് മെച്ചപ്പെടുത്താൻ സാധിക്കും ഒൻപത് I have good relations with my customers ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട വാക്ക് relations എന്നതാണ് പത്ത് I have to care for my aged parents ഇവിടെ age അല്ലെങ്ങിൽ aged എന്നതിന്റെ ഉപയോഗത്തിലുള്ള പിശകെന്താണ് 11 People dream to visit the USA to visit എന്നതിലെ തെറ്റ് എന്താണ് പ്രത്യേകിച്ചും അത് dream എന്ന വാക്കുമായി ചേർത്ത് ഉപയോഗിക്കുമ്പോൾ ഇത് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും 12 ഇതും നമ്മളിൽ മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് Please excuse me I didn't mean to step on your shoes പലപ്പോഴും തിരക്കുള്ള ബസിലോ ട്രെയിനിലോ വച്ച് ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ ഷൂസിൽ ചവിട്ടാൻ ഇടയായാൽ നമ്മൾ ഇതു പറയാറുണ്ട് Please excuse me I didn't mean to step on your shoes ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പദപ്രയോഗം Please excuse me എന്നതുതന്നെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത് ഉപയോഗിക്കുന്നതിലെ അപാകത എന്താണ് 13 Ashok is good in cricket ഇതിൽ അടിവരയിട്ട വാക്ക് good in എന്നതാണ് ഇത് പരിശോധിക്കുക 14 Many times I see my neighbor cycling to my office ഇതിൽ Many times എന്നുപയോഗിക്കുന്നതിലെ തെറ്റ് എന്താണ് 15 ഇതും പലപ്പോഴും ഞാൻ എന്റെ വിദ്യാർഥികളിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ് Last to last year I was in Bangalore സ്ഥിരമായി തെറ്റു സംഭവിക്കാറുള്ള ഈ last to last എങ്ങനെ ശരിയാക്കാൻ സാധിക്കും 16 Today morning I met Sheetal ഇതിലെ തെറ്റ് എന്താണ് 17 എന്തെഗിലും പ്രവർത്തി നിർത്തിവച്ചു പോകുമ്പോൾ ആളുകൾ സാധാരണ പറയാറുള്ളതാണ് I will see you after a week ഇതിലെ തെറ്റു എങ്ങനെ തിരുത്തും 18 സ്ഥിരമായി ആവർത്തിക്കപ്പെടുന്ന ഒരു തെറ്റാണ് I didn't had my breakfast ഞാൻ എന്റെ പ്രഭാത ഭക്ഷണം കഴിച്ചില്ല എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ഇത് നമ്മൾ അടുത്തതിൽ വിശദമായി ചർച്ച ചെയ്യും എന്നിരുനാലും didn't had എന്നതിലെ തെറ്റ് എന്താണ് 19 We've lived here since three years അടിവരയിട്ടിരിക്കുന്ന വാക്ക് since എന്നതാണ് എന്താണ് ഇവിടുത്തെ തെറ്റ് 20 I met Gauri three years before ഇവിടെ അടിവരയിട്ടിരിക്കുന്നത് Before എന്ന വാക്കാണ് എന്താണ് ഈ അടിവരയിട്ടിരിക്കുന്ന വാക്കിലെ തെറ്റ് അതിന്റെ ശരിയായ വാക്ക് പറയുക പക്ഷേ ഇത്തവണ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലും വാക്കുകളുടെ അടിയിൽ അടിവരയിട്ടിരിക്കണം മാത്രമല്ല എന്നിട്ട് അതിന്റെ ശരിയായ രൂപം കണ്ടെത്തി അതായത് നിങ്ങൾക്ക് ശരിയെന്നു തോന്നുന്നത് എഴുതി അടുത്ത വീഡിയോക്കായി തയ്യാറാകുക അടുത്ത ഭാഗം ഞാൻ തുടങ്ങുന്നത് ഇതിന്റെ ഉത്തരങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ പരിശോധിച്ചു മൂല്യ നിർണയം നടത്താം ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രമല്ല മറ്റ് ഏതു ഭാഷയും പഠിക്കുന്നതിനു പ്രചോദനമാകത്തക്ക ഒരു ചിന്തയോടെ അവസാനിപ്പിക്കാം ഇത് പ്രസിദ്ധ തത്വചിന്തകനും ഭാഷാ ഗവേഷകനും ബഹുഭാഷാപണ്ഡിതനുമായ ലുട്വിക് വിറ്റ്ഗെൻസ്റ്റ്ഐൻറ്റെതാണ് അദ്ദേഹം പറയുന്നു എന്റെ ഭാഷയുടെ അതിർവരമ്പ് എന്റെ ലോകത്തിന്റെ അതിർവരമ്പാണ് ഞാൻ എന്തെങ്കിലും പിശകുകൾ വരുത്തിയാൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അതാണ് എന്റെ അതിര് അതുകൊണ്ട് എന്റെ ആശയങ്ങളെ ഫലപ്രദമായി എനിക്ക് കൈമാറാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ ഉള്ളതിനെ അനായാസമായി ഒഴുക്കോടെ വിജയകരമായി ശക്തമായി ഫലപ്രദമായി പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു എങ്കിൽ എന്റെ ആശയവിനിമയതിലൂടെ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് എനിക്ക് ലഭിച്ചു എങ്കിൽ അതിന്റെ അർത്ഥം എന്റെ ലോകം വിശാലമാണ് അതിരുകൾ ഇല്ലാത്തതാണ് എന്നാണ് പക്ഷേ എനിക്കതിനു സാധിക്കുന്നില്ല എങ്കിൽ ഭാഷ എന്നത് - അത് ഏതു ഭാഷയുമായിക്കൊള്ളട്ടെ - എനിക്ക് ഒരു പരിമിതിയായി മാറും അത് എന്റെ ലോകത്തിന്റെ പരിമിതികളെ ദ്യോദിപ്പിക്കും എന്റെ ലോകം ചുരുങ്ങും ഇടുങ്ങിയതായി മാറും ശരിയാണ് ഒരു ചെറിയ വൃത്തത്തിനുള്ളിലും നമ്മൾ ഇനിയും കണ്ടെത്തേണ്ട അനേകം ലോകങ്ങളുണ്ട് എന്നിരുന്നാലും അതുകൊണ്ട് നമ്മുടെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് ഭാഷയുടെ സുകൃതങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ലോകത്തിന്റെ ചക്രവാളങ്ങൾ നമുക്കു വിശാലമാക്കാം ഇത്തരത്തിൽ നിങ്ങളുടെ പരിമിതികളെ കണ്ടെത്താനും അവയെ അങ്കികരിക്കാനും അഭിമുഖീകരിക്കാനും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളെ സഹായിക്കും തെറ്റുകൾ വരുത്താതെ നിങ്ങൾക്കു സംസാരിക്കാൻ കഴിയും എന്ന് നിങ്ങളിൽ പലരും അങ്കികരിക്കാൻ തയ്യാറല്ല ഞാൻ അത്ര കഴിവുള്ളവനല്ല എന്നാണു നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഇത്തരത്തിൽ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത്തരത്തിൽ ഉറപ്പിച്ചു കഴിയും ഇത് തികച്ചും സങ്കുചിതമായ ഒരു ചിന്തയാണ് ഇത് നൂതന ചിന്തകൾ കടന്ന് വരുന്നതിനെ തടയുന്നു എന്ന് മാത്രമല്ല ഇത്തരം നൂറുകണക്കിന് വീഡിയോസ് കണ്ടാലും അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല നിങ്ങളുടെ മനസ്സ് തുറവിയുള്ളതായാൽ മാത്രമേ ചിന്തകളെ സ്വീകരിക്കാൻ നിങ്ങളുടെ തെറ്റുകളെ അങ്കികരിക്കാൻ ഒക്കെ നിങ്ങൾക്കു കഴിയൂ അങ്ങനെ ആയാൽ നിങ്ങൾ മുന്നോട്ടു കുതിക്കും ഒരു പുതിയ ജീവിതം ആരംഭിക്കും പുതിയ വാതായനങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും അതുകൊണ്ട് ഈ ചിന്തകളോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി സൌമ്യ ശർമയുടെ പുസ്തകം ആമസോൺ ഫ്ലില്പ്കാർട്ട് എന്നിവയിലൂടെയും നിങ്ങളുടെ അടുത്തുള്ള പുസ്തക വിൽപ്പനക്കാരിൽ നിന്നും വെറും നൂറ്റി എൺപത് രൂപക്ക് ലഭിക്കും ഈ പുസ്തകം Common Errors in English കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധികരിച്ചത് Common Errors നെക്കുറിച്ച് പഠിക്കാൻ ഇതിനു പുറമേ അല്പം പഴയ ഒരു പുസ്തകം കൂടിയുണ്ട് 1998ൽ പ്രസിദ്ധികരിച്ചത് 1998ൽ പ്രസിദ്ധികരിച്ച Longman's Dictionary of Common Errors എന്ന ഈ പുസ്തകവും മറ്റതും തമ്മിലുള്ള വ്യത്യാസം ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ സൌമ്യ ശർമയുടെ പുസ്തകം കൂടുതൽ ഇന്ത്യക്കാരുടെ ഇംഗ്ലീഷ് സംസാരരീതികളെയും നോൺ നെറ്റിവ് സ്പീക്കേഴ്സ് അവരുടെ അനുദിന ജീവിതത്തിൽ വരുത്തുന്ന തെറ്റുകളേയും മറ്റും കേന്ദ്രികരിച്ചാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഈ പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് ഇത് ഉപയോഗിച്ച് തുടങ്ങുക ഇതൊരു ചെറിയ പുസ്തകമാണ് അതുകൊണ്ടു തന്നെ പെട്ടന് വായിച്ചു തീർക്കാനും സാധിക്കും നിങ്ങളെ പ്രജോദിപ്പിക്കാൻ ഞാൻ അതിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ എടുത്തു എന്ന് മാത്രം ശരി നിങ്ങളുടെ ഇംഗ്ലീഷ് നൈപുണ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് സൂചിപ്പിക്കുകയായിരുന്നു നിങ്ങളുടെ വ്യക്തിത്വത്തോടൊപ്പം സോഫ്റ്റ് സ്കിൽസും അടിനോടനുബന്ധമായി നിങ്ങളുടെ ഇംഗ്ലീഷ് നൈപുണ്യവും വികസിപ്പിക്കാനും മെച്ചപ്പെടുത്താനുമുള്ള നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും ഈ പുസ്തകം തൃപ്തിപ്പെടുത്തും ഈ വീഡിയോ കണ്ടതിനു നന്ദി എല്ലാവർക്കും ഉത്കൃഷ്ടമായ ഒരു ദിനം ആശംസിക്കുന്നു